ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ സ്ട്രക്ച്ചറിന്റെ അന്തിമ ഉദാഹരണമായി നമ്മൾ ബൈനറി സെർച്ച് കീകൾ നോക്കും ഒരു തരം ക്രമത്തിൽ ഡൈനാമിക് ഡാറ്റ പരിപാലിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നോക്കുന്നത് ഒരു വാല്യൂനായി കാര്യക്ഷമമായി തിരയാൻ ബൈനറി സെർച്ച് ഉപയോഗിക്കാമെന്നത് സോർട്ടിങ്ങിന്റെ ഉപോൽപ്പന്നങ്ങളിലൊന്നാണെന്നത് ഓർക്കുക എന്നാൽ നമുക്ക് ഡാറ്റ എന്നെന്നേക്കുമായി സോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ബൈനറി സെർച്ച് ഉപയോഗിക്കാം ഡാറ്റ ഡൈനാമിക് ആയി മാറിക്കൊണ്ടിരുന്നാൽ ബൈനറി സെർച്ച് കാര്യക്ഷമമായി ഉപയോഗിക്കണമെങ്കിൽ ഡാറ്റ റിസോർട്ടിങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ടു പ്രയോജനമില്ല നമുക്ക് ഇനങ്ങളുടെ ഒരു ശ്രേണി ഉണ്ടെന്ന് കരുതുക ഇനങ്ങൾ ഇടയ്ക്കിടെ ഇൻസേർട്ട് ഡിലീറ്റ് എന്നിവ ചെയ്യുന്നു നമ്മൾ ഹീപ്പിൽ കണ്ടതുപോലെ ഉദാഹരണത്തിന് ഒരു സോർട്ടഡ് ലിസ്റ്റ് നിലനിർത്താനും ഇൻസേർട്ടുകളുടെ ട്രാക്ക് സൂക്ഷിക്കാനും ശ്രമിച്ചാൽ ഓരോ ഇൻസേർട്ട് ഡിലീറ്റ് എന്നിവ ഓർഡർ n സമയം എടുക്കും അതും ചെലവേറിയതായിരിക്കും എന്നിരുന്നാലും നമുക്ക് ട്രീ പോലുള്ള ഒരു സ്ട്രക്ച്ചർ അല്ലെങ്കിൽ പ്രയോറിറ്റി ക്യു പോലുള്ള ട്രീ സ്ട്രക്ച്ചർ എടുത്താൽ അത് ഒരു ഹീപ്പിലേക്ക് നീങ്ങുന്നു തുടർന്ന് സെർച്ചിനൊപ്പം കാര്യക്ഷമമായി ഇൻസേർട്ട് ഡിലീറ്റ് എന്നിവ ചെയ്യാം നമ്മുടെ മനസ്സിലുള്ള ഡാറ്റ സ്ട്രക്ച്ചറിനെ ഒരു ബൈനറി സെർച്ച് ട്രീ എന്ന് വിളിക്കുന്നു ഒരു ബൈനറി സെർച്ച് ട്രീയിൽ നമ്മൾ എല്ലാ വാല്യൂവിന്റെയും ഒരു പകർപ്പ് സൂക്ഷിക്കുന്നു ഇത് ഒരു സെറ്റ് പോലെയാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ സൂക്ഷിക്കാത്ത കൂടാതെ ഓരോ നോഡിനും വാല്യൂസ് ഇനിപ്പറയുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു നിലവിലെ നോഡുകളുടെ വാല്യൂവിനെക്കാൾ ചെറുതായ എല്ലാ വാല്യൂസ് ഇടതുവശത്തും നിലവിലെ നോഡ് വാല്യൂവിനേക്കാൾ വലുതായ എല്ലാ വാല്യൂസ് വലതുവശത്തും ഒരു ബൈനറി സെർച്ച് ട്രീയുടെ ഒരു ഉദാഹരണം ഇതാണ് നിങ്ങൾക്ക് പരിശോധിക്കാം റൂട്ട് 5 ന്റെ ഇടതുവശത്ത് 1 2 4 എന്നീ എല്ലാ വാല്യൂസ് ഉണ്ട് അവ എല്ലാം 5 നെക്കാൾ ചെറുതും 5 ന്റെ വലതുവശത്ത് 8 ഉം 9 ഉം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം അവ വലുതാണ് ഇപ്പോൾ ഇത് ഒരു റിക്കേഴ്സീവ് പ്രോപ്പർട്ടി ആണ് നിങ്ങൾ താഴേക്ക് പോയാൽ ഉദാഹരണത്തിന് നിങ്ങൾ നോഡ് ലേബൽ രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് ചുവടെ 1 4 വാല്യൂസ് ഉണ്ട് കാരണം 1 2 നെക്കാൾ ചെറുതാണ് 1 2 ന്റെ ഇടതുവശത്തും 4 2 നെക്കാൾ വലുതായതിനാൽ 4 എന്നത് 2 ന്റെ വലത് വശത്തും ആണ് അതുപോലെ നമ്മൾ നോഡ് 8 നോക്കുകയാണെങ്കിൽ താഴെ അതിന് 9 എന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ അതിന് ഇടത് ചൈൽഡ് ഇല്ല എന്നാൽ 9 8 ന്റെ വലത് സബ്ട്രീയിലാണ് യൂസർ ഡിഫൈൻഡ് ലിസ്റ്റുകൾക്കായി നമ്മൾ ചെയ്തതു പോലെ നോഡുകൾ ഉപയോഗിച്ച് ഒരു ബൈനറി സെർച്ച് ട്രീ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ലിസ്റ്റിൽ നമുക്ക് ഒരു വാല്യൂവും അടുത്ത പോയിന്ററും ഉണ്ടായിരുന്നു എന്നാൽ ഒരു ബൈനറി സെർച്ച് ട്രീയിൽ ഓരോ നോഡിനും താഴെ രണ്ട് വാല്യൂസ് ഉണ്ട് ഒരു ഇടത് ചൈൽഡ് വലതും ഒരു ചൈൽഡ് ഓരോ നോഡിലും ഇപ്പോൾ മൂന്ന് ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇടത് ചൈൽഡ് വലത് ചൈൽഡ് പിന്നെ സൂക്ഷിക്കുന്ന വാല്യൂ എന്നിവ നമുക്ക് ഉണ്ടായിരുന്ന അതേ ഉദാഹരണം നോക്കിയാൽ വലതുവശത്ത് 4 ഉണ്ട് പിന്നെ റൂട്ട് നോഡ് 5 ന് 2 ഉം 8 ഉം ഉള്ള നോഡുകളിലേക്ക് ഒരു പോയിന്റർ ഉണ്ടാകും നോഡ് 2 ന് 1 4 നോഡുകളിലേക്ക് ഒരു പോയിന്റർ ഉണ്ടാകും ഇവ ഇപ്പോൾ ലീഫ് നോഡുകൾ എന്ന് വിളിക്കുന്നു അവർക്ക് ചൈൽഡ് ഇല്ല അവരുടെ ഇടത് വലത് പോയിന്ററുകൾ നൺ ആണ് ആ ദിശയിൽ ഒന്നുമില്ലെന്നു അത് സൂചിപ്പിക്കുന്നു അതുപോലെ ഒന്നും 8 ന്റെ ഇടത് പോയിന്റർ നൺ ആണ് കാരണം അതിനു ഇടത് ചൈൽഡ് ഇല്ല അതിന്റെ വലതു പോയിന്റർ 9 ലേക്ക് പോയിന്റ് ചെയ്യുന്നു ഒമ്പത് എന്ന നോഡ് വീണ്ടും രണ്ടു നൺ പോയിന്റേഴ്സ് ആണ് കാരണം അത് ഒരു ലീഫ് നോഡ് ആണ് ഇപ്പോൾ റിക്കേഴ്സീവ് അവതരണങ്ങൾക്കായി ഇത് നന്നായി പ്രയോജനപ്പെടുത്തുന്നതിന് ഈ പ്രാതിനിധ്യം വിപുലീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും നാം വെറും രണ്ട് നൺ പോയിന്റർ വാല്യൂ എന്നിവയിൽ അവസാനിപ്പിക്കുന്നില്ല യഥാർത്ഥത്തിൽ ശൂന്യമായ നോഡുകളുടെ ഒരു പാളി ചേർക്കും എല്ലാ ഫീൽഡുകളും നൺ കൂടെ ഈ ശൂന്യമായ ട്രീ എന്നാൽ ഒരു ശൂന്യമായ നോഡ് നൺ അല്ലാത്ത ഒരു ലീഫ് നോഡ് ഒരു വാല്യൂ എന്നിവ ഉണ്ടാകും അതിന്റെ രണ്ട് ചൈൽഡും ശൂന്യമായ നോഡുകളായിരിക്കും നേരിട്ട് ഇടത് വലത് പോയിന്ററുകൾ നൺ ആകില്ല ഇത് ശൂന്യമായ ചൈൽഡിനെ സഹായിക്കും ഇത് റിക്കേഴ്സീവ് ഫംഗ്ഷനുകൾ എഴുതുന്നത് എളുപ്പമാക്കുന്നു നമ്മൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ റിക്കേഴ്സീവ് ഫംഗ്ഷനുകൾ നേരിട്ട് നടപ്പിലാക്കുന്നത് അൽപ്പം ബുദ്ധിമുട്ടാണ് നമ്മുടെ ട്രീ സ്ട്രക്ച്ചർ എങ്ങനെ മാറുന്നുവെന്ന് മനസിലാക്കാൻ അതേ ഉദാഹരണത്തിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന സ്ട്രക്ച്ചർ ആണിത് ഇവിടെ ലീഫ് നോഡുകൾക്ക് ഒരു വാല്യൂ ഉണ്ട് ഇടത് വലത് ചൈൽഡ് പോയിന്ററുകൾ നേരിട്ട് നൺ ആണെന്നും ശ്രദ്ധിക്കുക നമ്മൾ ഇത് മാറ്റാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് എല്ലായിടത്തും ഒരു ശൂന്യമായ നോഡ് ചുവടെ ചേർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നൺ കാണുന്നിടത്തെല്ലാം നോഡ് ഇൻസേർട്ട് ചെയ്യാനും എക്സ്ട്രാക്റ്റു ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് തീർച്ചയായും ട്രീ വലുതാക്കുന്നു പക്ഷേ ഈ ചെലവ് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുന്നത്ര വലുതല്ല നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് പോലെ തോന്നിക്കുന്ന ഒരു പുതിയ ട്രീ നമുക്ക് ലഭിക്കും ഓരോ ലീഫ് നോഡിനും താഴെയായി നമുക്ക് സാധാരണ നൺ പോയിന്റർ ഉണ്ടെങ്കിൽ പാത അവസാനിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു അവിടെ ഒരു അധിക നോഡ് നമ്മൾ വ്യക്തമായി ചേർക്കും ഇതിന് മൂന്ന് ഫീൽഡുകളും നൺ ആയിരിക്കും പിന്നീട് നമ്മുടെ പ്രോഗ്രാമിംഗ് എളുപ്പമാക്കാൻ ഇത് വളരെ ഉപയോഗപ്രദമാണെന്ന് പിന്നീട് മനസിലാകും ഇത് ഒരു ബൈനറി സെർച്ച് ട്രീയ്ക്കായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രാതിനിധ്യമാണ് ഓരോ നോഡിനും മൂന്ന് പോയിന്ററുകളുണ്ട് ലീഫിൽ മൂന്ന് ശൂന്യമായ നോഡുകളുടെ ഒരു അധിക പാളി ഉണ്ട് അതിന്റെ എല്ലാം വാല്യൂസ് നൺ നൺ നൺ ആണ് ഇതാണ് ബേസിക് ക്ലാസ് ട്രീ മുമ്പത്തെപ്പോലെ നമുക്ക് ഒരു init ഫംഗ്ഷൻ ഉണ്ട് അത് ഒരു പ്രാരംഭ വാല്യൂസ് എടുക്കുന്നു അത് ഡിഫോൾട്ട് ആയി നൺ ആണ് init ഫംഗ്ഷൻ ഇതുപോലെ പ്രവർത്തിക്കുന്നു നമ്മൾ ആദ്യം വാല്യൂ initval ആയി സജ്ജമാക്കുന്നു അത് നൺ ആകാം തുടർന്ന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നോഡ് ഉള്ള ഒരു ട്രീ സൃഷ്ടിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ തിരിച്ചുപോയി നമ്മൾ ഒരു വാല്യൂവും നൽകില്ല എന്ന് കരുതുക ഈ കേസ് നോക്കുന്നതാണ് നല്ലത് ഒരു വാല്യൂ പോലും നൽകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ശൂന്യമായ ട്രീയിൽ അവസാനിക്കും അതിൽ നൺ നൺ നൺ ആയിരിക്കും പ്രാരംഭ വാല്യൂ നൺ ആണ് എങ്കിൽ നമുക്ക് ഈ ട്രീ ലഭിക്കുന്നു init വാല്യൂ നൺ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു ട്രീ ലഭിക്കും അതിൽ നമ്മൾ വാല്യൂ v ഇടുന്നു തുടർന്ന് ഇടത് വലത് പോയിന്ററുകൾ രണ്ടും ഈ നൺ നൺ എന്നിവയിലേക്ക് പോയിന്റ് ചെയ്യുന്നു ഇത് കൃത്യമായി ഒരു വാല്യൂ ഉൾക്കൊള്ളുന്ന ഒരു ട്രീ ആണ് inint വാല്യൂ നൺ ആണോ അല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്ന് നോഡുകളുള്ള ഒരു ട്രീ അതിൽ താഴെ രണ്ട് ഡമ്മി നോഡുകൾ അല്ലെങ്കിൽ ഒരൊറ്റ ശൂന്യ നോഡ് മാത്രമുള്ള ശൂന്യമായ ട്രീ ലഭിക്കും നമുക്ക് മുമ്പുള്ളതുപോലെ isempty എന്ന ഫംഗ്ഷൻ ഉണ്ട് അത് അടിസ്ഥാനപരമായി വാല്യൂ നൺ ആണോ എന്ന് പരിശോധിക്കുന്നു ഞാൻ ഒരു ട്രീ നോക്കാൻ തുടങ്ങിയാൽ ആദ്യത്തെ നോഡ് നൺ ആണെങ്കിൽ ആ ട്രീ ശൂന്യമാണ് അല്ലെങ്കിൽ അത് ശൂന്യമല്ല ഒരു ട്രീയിലെ വാല്യൂസ് ആസൂത്രിതമായി പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള ഒരു മാർഗം ആദ്യം നോക്കാം ഇവയെ ട്രാവേഴ്സലുകൾ എന്ന് വിളിക്കുന്നു കൂടാതെ ഒരു ബൈനറി സെർച്ച് ട്രീയ്ക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ട്രാവേഴ്സൽ ഒരു ഇൻഓർഡർ ട്രാവേഴ്സലാണ് ഒരു ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്യുന്നത് അത് ആദ്യം ഇടത് വശത്ത് പര്യവേക്ഷണം ചെയ്യുന്നു എന്നതാണ് ഇത് ആദ്യം ഒരു ഇൻഓർഡർ ട്രാവേഴ്സൽ ഉപയോഗിച്ച് ഇത് ആവർത്തിച്ച് പര്യവേക്ഷണം ചെയ്യും തുടർന്ന് ഇത് പ്രദർശിപ്പിക്കും തുടർന്ന് അത് വലത് ഭാഗം പര്യവേക്ഷണം ചെയ്യും നിങ്ങൾ ഈ കോഡ് നോക്കുക ട്രീ ശൂന്യമല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഇടത് സെൽഫ് ട്രീയുടെ ഒരു ഇൻഓർഡർ ട്രാവേഴ്സൽ നടത്തുക തുടർന്ന് നിങ്ങൾ നിലവിലെ നോഡിൽ വാല്യൂ എടുക്കുകയും വലത് സെൽഫ് ട്രീയുടെ ഇൻഓർഡർ ട്രാവേഴ്സൽ നടത്തുകയും ചെയ്യുന്നു വാല്യൂസ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു നമ്മൾ ഇത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുകയാണെങ്കിൽ 5 ൽ നമ്മൾ എത്തിയാൽ ആദ്യം ഇടത് വശത്ത് ഒരു ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്യുക എന്ന് പറയുന്നു നമ്മൾ രണ്ടിലേക്ക് ഇറങ്ങുന്നു ഇത് വീണ്ടും ഒരു ട്രിവിയൽ ട്രീ അല്ല വീണ്ടും നമ്മൾ ഒരു ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇടതു വശത്തേക്ക് പോകുന്നു ഇപ്പോൾ നമുക്ക് ഒന്ന് ഉണ്ട് അതിന്റെ ഇൻഓർഡർ ട്രാവേഴ്സൽ എന്നാൽ ശൂന്യമായ ഇടത് ചൈൽഡ് വലതു ചൈൽഡ് എന്നിവ ആണ് ഇത് ഒന്ന് നൽകുന്നു ഞാൻ മടങ്ങിയെത്തി ഞാൻ നോഡ് രണ്ട് ലിസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ അതിൻറെ ഇൻഓർഡർ ട്രാവേഴ്സൽ ചെയ്യുന്നു എനിക്ക് 1 2 4 ലഭിച്ചു ഇത് 5 ന്റെ ഇടത് സബ്ട്രീയുടെ ഇൻഓർഡർ ട്രാവേഴ്സൽ പൂർത്തിയാക്കുന്നു ഇപ്പോൾ ഞാൻ 5 തന്നെ ലിസ്റ്റ് ചെയ്യുന്നു തുടർന്ന് 8 ഉം 9 ഉം ഇൻഓർഡർ ട്രാവേഴ്സൽ നടത്തുന്നു കാരണം 8 ന് ഇടത് ചൈൽഡ് ഇല്ല അടുത്ത വാല്യൂസ് 8 ആയിട്ടാണ് വരുന്നത് തുടർന്ന് 9 നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിലവിലെ വാല്യൂവിന് മുമ്പായി ഇടത് ചൈൽഡ് വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നു നിലവിലെ വാല്യൂവിന് ശേഷം വലതു ചൈൽഡ് ആകുമ്പോൾ നിലവിലെ വാല്യൂ അനുസരിച്ച് ഇതെല്ലാം സൊർട്ടേഡ് ആകുന്നു കാരണം അങ്ങനെയാണ് സെർച്ച് കീ ഓർഗനൈസ് ചെയ്യുന്നത് മാത്രമല്ല ഓരോ തലത്തിലും ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു സെർച്ച് ട്രീയുടെ ഇൻഓർഡർ ട്രാവേഴ്സലിന്റെ അന്തിമ ഔട്ട്പുട്ട് എല്ലായ്പ്പോഴും ഒരു സോർട്ടഡ് ലിസ്റ്റ് ആണ് നിങ്ങൾ നിർമ്മിച്ച ട്രീ സൊർട്ടേഡ് ആണെന്നു ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു മാർഗ്ഗമാണിത് നിങ്ങൾ ഇൻഓർഡർ സബ് ട്രാവേഴ്സൽ ചെയ്യുന്നു കൂടാതെ ഈ ട്രാവേഴ്സലിൽ നിന്നും ലഭിക്കുന്ന ഔട്ട് പുട്ട് ഒരു സോർട്ടഡ് ലിസ്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക ഈ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ ഒരു സെർച്ച് ട്രീ നിർമ്മിക്കാനുള്ള ഒരു പ്രധാന കാരണം ബൈനറി സെർച്ച് പോലുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നതാണ് ഇത് ഡൈനാമിക് ഡാറ്റ ഉപയോഗിച്ചാണ് നമുക്ക് പ്രവർത്തനങ്ങളായി ഇൻസേർട്ട് ഡിലീറ്റ് എന്നിവ ചെയ്യണം പക്ഷേ പ്രധാന അടിസ്ഥാന പ്രവർത്തനം ഫൈൻഡ് ആണ് ബൈനറി സെർച്ചിലെന്നപോലെ നമ്മൾ റൂട്ടിൽ ആരംഭിക്കുന്നു ഇത് ഒരു അറേ ലിസ്റ്റിന്റെ മധ്യ ഭാഗമാണെന്ന് നിങ്ങൾ ഊഹിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഈ ഘടകം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതു തന്നെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ ഉചിതമായ സബ് ട്രീയിൽ നോക്കേണ്ടതുണ്ട് സെർച്ച് ട്രീ ക്രമീകരിച്ചിരിക്കുന്നത് ഇടത് വാല്യൂസ് ചെറുതാണ് വലത് വാല്യൂ വലുതാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ നിലവിലെ നോഡിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ഇടത്തേക്ക് പോകുന്നു അത് നിലവിലെ നോഡിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ വലത്തേക്ക് പോകുന്നു ഇത് ട്രീയിലെ ബൈനറി സെർച്ച് ഒരു പൊതുവൽക്കരണമാണ് ഇതാണ് കോഡ് ഇത് വളരെ എളുപ്പവുമാണ് v യുടെ വാല്യൂ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതാണ് പൈത്തൺ സിന്റാക്സ് നമ്മുടെ ഫംഗ്ഷന്റെ ആദ്യ പാരാമീറ്ററായി നമുക്ക് എല്ലായ്പ്പോഴും സെൽഫ് ഉണ്ട് നിലവിലെ നോഡ് ശൂന്യമാണെങ്കിൽ നമുക്ക് അത് കണ്ടെത്താൻ കഴിയില്ല v കണ്ടെത്തുകയാണെങ്കിൽ അത് v റിട്ടേൺ ഫാൾസ് ആണ് v കണ്ടെത്തുന്നില്ലെങ്കിൽ അത് റിട്ടേൺ ട്രൂ ആണ് ഇത് അല്ല ഇത് ഈ നിലവിലെ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ അത് സെൽഫ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ ഇടത്തേക്ക് പോയി അത് തിരയുന്നു അല്ലെങ്കിൽ നമ്മൾ വലത്തേക്ക് പോയി തിരയുന്നു ഇത് കൃത്യമായി ഒരു ബൈനറി സെർച്ച് ആണ് മാത്രമല്ല ഇത് വളരെ ലളിതമായ ഒരു റിക്കേഴ്സീവ് കാര്യമാണ് അത് ഒരു സെർച്ച് ട്രീയുടെ സ്ട്രക്ച്ചർ കൃത്യമായി പിന്തുടരുന്നു ഒരു സെർച്ച് ട്രീയിലെ ഏറ്റവും ചെറുതും വലുതുമായ വാല്യൂസ് കണ്ടെത്താൻ ഇത് പിന്നീട് ഉപയോഗപ്രദമാകും ഇടത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ചെറുതിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക ഒരു ട്രീയിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ എവിടെയാണ് അത് ഇടത് വശത്തെ ഏറ്റവും ചെറിയ പാതയിലാണ് എനിക്ക് ഏറ്റവും ഇടത് വശത്തെ പാതയിലൂടെ പോയി തുടർന്ന് എനിക്ക് കൂടുതൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അത് കണ്ടെത്തുന്നു ട്രീ ശൂന്യമല്ലാത്തപ്പോൾ മാത്രമേ നമ്മൾ എല്ലായ്പ്പോഴും ഈ ഫങ്ഷൻ പ്രയോഗിക്കുകയുള്ളൂ ശൂന്യമല്ലാത്ത ഒരു ട്രീയിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ നമ്മൾ തിരയുന്നുവെന്ന് കരുതുക ശരി ഏറ്റവും ഇടത് വശത്തെ പാത നമ്മൾ കണ്ടെത്തുന്നു എനിക്ക് കൂടുതൽ ഇടത്തേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അത് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ കൂടുതൽ പോകാൻ കഴിയാത്തതിനാൽ ഒന്ന് ആണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ എനിക്ക് ഇടത്തേക്ക് പോകാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു പടി കൂടി പോകും നമ്മൾ ഇത് ആരംഭിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് 5 എന്ന് പറയുക 5 നു ഒരു ഇടതു സബ്ട്രീ ഉണ്ട് 5 ന് താഴെയുള്ള ഏറ്റവും കുറഞ്ഞ വാല്യൂ അതിനു താഴെയുള്ള ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് അത് ഇടതു ചൈൽഡ് നിങ്ങൾ മൂന്നിലേക്ക് പോകുക മൂന്നിൽ താഴെയുള്ള ഏറ്റവും കുറഞ്ഞ വാല്യൂ അതിനു താഴെയുള്ള ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണെന്ന് നമ്മൾ പറയുന്നു അതിന്റെ ഇടതു ചൈൽഡ് ഇപ്പോൾ നിങ്ങൾ ഒന്നിലേക്ക് പോയാൽ ഇടത് ചൈൽഡ് ഇല്ലാത്തതിനാൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ 1 ആണെന്ന് നമ്മൾ പറയുന്നു നമുക്ക് ഉത്തരം 1 ലഭിക്കുന്നു ഇത് തീർച്ചയായും 2 ആണ് അതിന് താഴെയുള്ള 2 വലതുവശത്ത് മാത്രമേയുള്ളൂ ഏറ്റവും വലതുഭാഗത്തെ വഴി പോയി ഇതുപോലെ നമുക്ക് പരമാവധി വാല്യൂ കണ്ടെത്താൻ കഴിയും വലതു വശത്തു നൺ ആണെങ്കിൽ നമ്മൾ നിലവിലെ വാല്യൂ തിരികെ നൽകും അല്ലെങ്കിൽ നമ്മൾ വലതുവശത്ത് പരമാവധി വാല്യൂ റിക്കേഴ്സീവ് ആയി നോക്കി ഈ സാഹചര്യത്തിൽ നമ്മൾ 5 ൽ ആരംഭിക്കുന്നു നമ്മൾ 7 ലേക്ക് പോകുന്നു തുടർന്ന് നമ്മൾ 9 ലേക്ക് താഴുന്നു കൂടാതെ 9 ൽ നിന്ന് വേറെ വലത് പാതയില്ലാത്തതിനാൽ 9 ഈ ട്രീയിലെ പരമാവധി വാല്യൂ ആയിരിക്കണം നമ്മൾ പിന്നീട് മടങ്ങിയെത്തി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ വാല്യൂ ആവശ്യമായി വരുന്നത് എന്ന് നോക്കാം എന്നാൽ ഏത് രീതിയിലും അത് കണ്ടെത്താൻ കഴിയുന്നത് ഉപയോഗപ്രദമാണ് മാത്രമല്ല ഇത് വീണ്ടും ബൈനറി സെർച്ച് സ്ട്രക്ച്ചർ ഉപയോഗിച്ച് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നമ്മൾ പറഞ്ഞ ഒരു കാര്യം ട്രീയിൽ നിന്ന് ഘടകങ്ങൾ ഡൈനാമിക് ആയി ചേർക്കാനും നീക്കംചെയ്യാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ നോക്കുന്ന ആദ്യ ഫങ്ഷൻ ഇൻസേർട്ട് ആണ് ട്രീയിൽ ഒരു ഘടകം എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നത് വളരെ എളുപ്പമാണ് നമ്മൾ അത് തിരയുന്നു അത് കണ്ടെത്താനായില്ലെങ്കിൽ സെർച്ച് അവസാനിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് അത് വരേണ്ടത് നമ്മൾ അത് അവിടെ തന്നെ ഇൻസേർട്ട് ചെയ്യുക ഉദാഹരണത്തിന് ഈ ട്രീയിൽ 21 ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുവെന്ന് കരുതുക 52 നോക്കുക തുടർന്ന് ഇടത്തേക്ക് പോകുക ഇടത്തേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും 16 ലേക്ക് വരും വലത്തേക്ക് പോകുമ്പോൾ നമ്മൾ 21 28 ലേക്ക് വരുന്നു ഇനി പോകാൻ സാധ്യമല്ല ഈ പാതയിൽ ഈ ട്രീയിൽ 21 സാധ്യമല്ല പക്ഷേ 21 കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് 28 ന്റെ ഇടതുവശത്തായിരിക്കണം നമ്മൾ അത് അവിടെ ചേർക്കുന്നു അത് എവിടെയാണ് വരേണ്ടതെന്ന് നമ്മൾ അന്വേഷിക്കുന്നു അത് കണ്ടെത്തിയില്ലെങ്കിൽ ഉചിതമായ സ്ഥലത്ത് നമ്മൾ അത് ചേർക്കുന്നു അതുപോലെ നിങ്ങൾക്ക് 65 നോക്കാൻ കഴിയും 65 എന്നത് 52 നെക്കാൾ വലുതാണ് നമ്മൾ വലതുവശത്തേക്ക് പോകുമ്പോൾ അത് 74 നെക്കാൾ ചെറുതാണ് നമ്മൾ ഇടത്തേക്ക് പോകുന്നു പക്ഷേ 74 ന്റെ ഇടതുവശത്ത് ഒന്നും തന്നെയില്ല ഇപ്പോൾ നമ്മൾ അത് 74 ന്റെ ഇടതുവശത്താണ് ഇൻസേർട്ട് ചെയ്യുക ഇപ്പോൾ ഇൻസേർട്ട് ഇതിനകം തന്നെ ഉള്ള ഒരു വാല്യൂ ഇടുകയില്ല കാരണം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ 52 ൽ നിന്ന് വലത്തേക്ക് പോകുന്നു 74 ൽ നിന്ന് വലത്തേക്ക് പോകുന്നു ഇപ്പോൾ 91 ട്രീയിൽ ഇതിനകം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി തൊണ്ണൂറ്റി ഒന്ന് ചേർക്കുക എന്നത് ഈ ട്രീയെ ബാധിക്കില്ല ഇത് ഫൈൻഡ് അൽഗോരിത്തിന്റെ വളരെ ലളിതമായ പരിഷ്ക്കരണമാണ് നമ്മൾ തിരയുന്നത് തുടരുകയാണ് നമ്മൾ ലീഫ് നോഡിലെത്തിയാൽ നമ്മൾ ശൂന്യമായ ഒരു നോഡിലേക്ക് വരും നമ്മൾ ഒരു ശൂന്യമായ നോഡിലെത്തിയെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഇവിടെ ഒരു പുതിയ നോഡ് സൃഷ്ടിക്കുന്നു ഇവിടെ നമ്മൾ ഈ വാല്യൂ v എന്ന് നൽകുന്നു കൂടാതെ നൺ നൽകാതെ ഇടത്തോട്ടും വലത്തോട്ടും രണ്ട് ശൂന്യമായ നോഡുകൾ ചേർത്ത് ചുവടെ ഒരു പുതിയ ലെയർ സൃഷ്ടിക്കുന്നു മറുവശത്ത് ട്രീയിൽ വാല്യൂ കണ്ടെത്തിയാൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല വാല്യൂ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ സെർച്ച് ട്രീ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയും ഇടതുവശത്തോ വലത്തോട്ടോ ഉചിതമായ രീതിയിൽ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യുന്നത് ഇൻസേർട്ട് ചെയ്യുന്നതിനേക്കാൾ അൽപ്പം സങ്കീർണ്ണമാണ് അടിസ്ഥാനപരമായി നമ്മൾ ട്രീയിൽ v കണ്ടെത്തുമ്പോഴെല്ലാം അത് ഒരു v മാത്രമാകാം എന്നത് ഓർക്കുക ഇത് മുമ്പ് ഉണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത് പോലെയല്ല ഇത് ഒരു സെർച്ച് ട്രീയിലെ v യുടെ ആദ്യ പകർപ്പ് നീക്കം ചെയ്യുന്നു V കണ്ടെത്തിയാൽ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യണം നമ്മൾ ഇപ്പോൾ പതിവുപോലെ v ക്കായി സെർച്ച് ചെയ്യുന്നു നമ്മൾ സെർച്ച് ചെയ്യുന്ന നോഡ് ഒരു ലീഫ് ആണെങ്കിൽ നമ്മൾ അത് പൂർത്തിയാക്കി അത് ഡിലീറ്റ് ചെയ്യുക ഒന്നും സംഭവിക്കുന്നില്ല അതിന് ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ ആ ചൈൽഡിനെ പ്രൊമോട്ട് ചെയ്യുക ഇതിന് രണ്ട് ചൈൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോൾ ഉണ്ട് ഒരു ലീഫ് ഉണ്ട് നമുക്ക് ഒരു നോഡ് ഉണ്ട് നമുക്ക് അതിലെ വാല്യൂ നീക്കംചെയ്യണം പക്ഷേ അതിനു താഴെയായി നമുക്ക് ഇരുവശത്തും വാല്യൂസ് ഉണ്ട് ഇപ്പോൾ ഈ ജോലി ചെയ്യുന്നതിന് നമ്മൾ ഈ maxval minval എന്നീ ഫംഗ്ഷൻ ഏതെങ്കിലും ഉപയോഗിക്കും ചില ഉദാഹരണങ്ങളിലൂടെ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം 65 ഡിലീറ്റ് ചെയ്യുന്നുവെന്ന് കരുതുക ആദ്യം നമ്മൾ 65 നായി തിരയുന്നു അത് ഒരു ലീഫ് ആയതിനാൽ നമ്മൾ അത് കണ്ടെത്തുന്നു ഈ സാഹചര്യത്തിൽ ആദ്യത്തെ കേസ് ആണ് നമ്മൾ ഈ ലീഫ് നീക്കം ചെയ്തു അത് നമ്മൾ പൂർത്തിയാക്കി ഇപ്പോൾ 74 ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മൾ 74 കണ്ടെത്തി അതിന് ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂവെന്ന് നമ്മൾ കണ്ടെത്തി ഇതിന് ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ ഇത് പുറത്തേക്ക് നീക്കിയാൽ ഈ ലിങ്ക് ഫലപ്രദമായി ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് മുഴുവൻ കാര്യങ്ങളും മുകളിലേക്ക് നീക്കി 52 നേരിട്ട് 91 ലേക്ക് പോയിന്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ കേസിൽ ആണ് ചൈൽഡിനെ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് അർത്ഥം ഡിലീറ്റ് ചെയ്ത നോഡിന് ഒരു ചൈൽഡ് മാത്രമേയുള്ളൂ നമുക്ക് ചൈൽഡിനെ മറികടന്ന് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്ത നോഡിന്റെ പേരെന്റിനെ നേരിട്ട് നോഡിന്റെ ഒറ്റ ചൈൽഡുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഇത് 91 മുകളിലേക്ക് നീങ്ങുന്നതിന് കാരണമാകും ഇപ്പോൾ അവസാനമായി നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ഉണ്ട് ഈ ട്രീയുടെ നടുവിലുള്ള ഒരു നോഡ് ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ 37 ആണെങ്കിൽ നമ്മൾ 37 ലേക്ക് വരുന്നു ഇത് നീക്കംചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇത് നീക്കംചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഒഴിവുണ്ട് നമ്മൾ വീണ്ടും ഈ ഒഴിവ് എങ്ങനെ പൂരിപ്പിക്കും ട്രീയുടെ ആകൃതി എങ്ങനെ ക്രമീകരിക്കും നമ്മൾ ഇടത്തേക്ക് നോക്കുകയും പരമാവധി വാല്യൂ കണ്ടെത്തുകയും ചെയ്യണം ഇടത് വശത്തുള്ള എല്ലാം 37 നെക്കാൾ ചെറുതാണെന്നും വലതുവശത്തുള്ളത് 37 നെക്കാൾ വലുതാണെന്നും ഓർമ്മിക്കുക ഇടത് നോഡുകളിൽ നമ്മൾ ഏറ്റവും വലുത് എടുത്ത് അവിടെയെല്ലാം നീക്കുന്നു ഇപ്പോൾ ഇടതുവശതുള്ള എല്ലാം ആ നോഡിനേക്കാൾ ചെറുതായി തുടരും നിങ്ങൾക്ക് ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാം വലതുഭാഗത്ത് നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക എന്നാൽ നിങ്ങൾ അത് ചെയ്യില്ല ഇടത് വശത്ത് നിന്ന് പരമാവധി വാല്യൂ എടുക്കുന്നതിൽ നിങ്ങൾ ഉറച്ചുനിൽക്കുക നമ്മൾ ഇടതുവശത്തേക്ക് പോയി പരമാവധി വാല്യൂ 28 ആണെന്ന് കണ്ടെത്തുന്നു അടിസ്ഥാനപരമായി നമ്മൾ 28 എടുത്ത് അവിടേക്ക് നീക്കുന്നു ഇപ്പോൾ 28 ന്റെ രണ്ട് പകർപ്പുകൾ പാടില്ല ഈ 28 നീക്കം ചെയ്യേണ്ടതുണ്ട് എങ്ങനെ ഈ സബ്ട്രീയിൽ നമ്മൾ അത് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ 28 ഡിലീറ്റ് ചെയ്യുക ഇത് ഒരു പ്രശ്നമായി തോന്നുന്നു കാരണം ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുന്നതിനായി നമ്മൾ വീണ്ടും ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുന്നു നിർവ്വചിച്ച രീതി അനുസരിച്ച് പരമാവധി വാല്യൂ വലതു പാതയോടൊപ്പമാണെന്ന് ഓർമ്മിക്കുക ഏറ്റവും വലത് പാത ഒന്നുകിൽ ലീഫിൽ അവസാനിക്കും അല്ലെങ്കിൽ ഇത് പോലുള്ള ഒരു ചൈൽഡ് മാത്രമുള്ള നോഡിൽ അവസാനിക്കും ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു ലീഫ് മാത്രമുള്ളപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാനാകുന്ന ആദ്യത്തെ രണ്ട് കേസുകളിൽ ആണെന്ന് നമുക്കറിയാം ഈ പരമാവധി വാല്യൂ ചെയ്യേണ്ടതില്ല നമുക്ക് പുറത്തുകടന്ന് 28 നീക്കംചെയ്യുകയും 21 നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം ഇങ്ങനെയാണ് ഡിലീറ്റ് പ്രവർത്തിക്കുക നമുക്ക് ഇപ്പോൾ ഫംഗ്ഷൻ നോക്കാം V എന്ന വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുക എളുപ്പമുള്ള കേസുകൾ കണ്ടെത്താതിരിക്കുക നിലവിലെ നോഡിൽ ആകുക ഇത് നിലവിലെ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ഇടതുവശത്തേക്ക് പോയി ഡിലീറ്റ് ചെയ്യുക നിലവിലെ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ അത് വലതുവശത്തേക്ക് പോയി ഡിലീറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നിലവിലെ വാല്യൂവിൽ v കണ്ടെത്തുന്നു എങ്കിൽ ബുദ്ധിമുട്ടാണ് ഇത് ഇപ്പോൾ ഒരു ലീഫ് ആണെങ്കിൽനമ്മൾ ഇവിടെ കാണിച്ചിട്ടില്ല ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം ഇത് ഇപ്പോൾ ഒരു ലീഫ് ആണെങ്കിൽ ഇതിനർത്ഥം ഇത് ഇടത്തോട്ടും വലത്തോട്ടും ശൂന്യമായ നോഡുകൾ ചൈൽഡ് ആയി വരുന്നു ഇത് ഒരു ലീഫ് ആണെങ്കിൽ അത് ശൂന്യമാക്കും നമ്മൾ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ഒരു മിനിറ്റിനുള്ളിൽ നോക്കാം ഇതിനുള്ള കോഡ് ഞാൻ കാണിച്ചുതരാം ഇത് ഒരു ലീഫ് ആണെങ്കിൽ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യുക ഇത് ആദ്യത്തെ കേസ് ആണ് ലളിതമാണ് ഇത് ലീഫ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചൈൽഡ് മാത്രമേയുള്ളൂവെങ്കിൽ നമ്മൾ ഈ നോഡ് ശൂന്യമാക്കുന്നു ഈ സാഹചര്യത്തിൽ ഇടത് ശൂന്യമാണെങ്കിൽ നമ്മൾ വലതുവശത്തെ നോഡ് പ്രൊമോട്ട് ചെയ്യുന്നു ഇടത് ശൂന്യമല്ലെങ്കിൽ ഇടതുവശത്ത് നിന്ന് പരമാവധി വാല്യൂ പകർത്തി ഇടത് വശത്തെ പരമാവധി വാല്യൂ ഡിലീറ്റ് ചെയ്യുക ഇവിടെയുള്ള ഈ രണ്ട് ഫംഗ്ഷനുകളും ശൂന്യമാക്കാനും കോപ്പി ചെയ്യാനും ആണ് makeempty ഇതിനെ ഒരു ശൂന്യ നോഡിലേക്ക് പരിവർത്തനം ചെയ്യുക എന്ന് പറയുന്നു ഒരു ശൂന്യ നോഡ് എന്നാൽ മൂന്ന് ഫീൽഡുകളും നൺ ആയിരിക്കും നമ്മൾ സെൽഫ് ഡോട്ട് വാല്യൂ നൺ ആണ് സെൽഫ് ഡോട്ട് ലെഫ്റ്റ് നൺ സെൽഫ് ഡോട്ട് റൈറ്റ് നൺ അതിന് ഒരു ശൂന്യമായ നോഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ശൂന്യമായ നോഡുകൾ ഇപ്പോൾ റിട്ടേണിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും ഇതാണ് makeempty ഫംഗ്ഷൻ ഇപ്പോൾ കോപ്പി റൈറ്റ് ഫംഗ്ഷൻ ഇത് എല്ലാം വലതുഭാഗത്ത് നിന്ന് എടുത്ത് മുകളിലേക്ക് നീക്കുന്നു ഇത് വലതു വാല്യൂ എടുക്കുകയും നിലവിലെ വാല്യൂ ഇടതു വാല്യൂ ആക്കുകയും ചെയ്യുന്നു റൈറ്റ് ഡോട്ട് ലെഫ്റ്റ് നമ്മൾ അടിസ്ഥാനപരമായി ഈ നോഡ് എടുത്ത് ഈ വാല്യൂസ് ഓരോന്നായി ഇവിടെ പകർത്തുന്നു കോപ്പി റൈറ്റ് ഡോട്ട് വാല്യൂ റ്റു കറന്റ് ഡോട്ട് വാല്യൂ റൈറ്റ് ഡോട്ട് ലെഫ്റ്റ് റ്റു കറന്റ് ലെഫ്റ്റ് റൈറ്റ് ഡോട്ട് റൈറ്റ് റ്റു കറന്റ് റൈറ്റ് ഇവയെല്ലാം എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾക്കു മനസ്സിലാകും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം പരിശോധിച്ചാൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ വാല്യൂ കണ്ടെത്താൻ ഒരു പാതയിലൂടെ സഞ്ചരിക്കുകയാണെന്നും ആ പാതയിലൂടെ പോകുമ്പോൾ ഒന്നുകിൽ നമ്മൾ കണ്ടെത്തും അല്ലെങ്കിൽ നമ്മൾ അവസാനത്തിലേക്ക് പോകുകയും തുടർന്ന് നിർത്തുകയും ചെയ്യുന്നു ഓരോ പ്രവർത്തനത്തിന്റെയും സങ്കീർണ്ണത യഥാർത്ഥത്തിൽ ട്രീയുടെ ഹൈറ്റ് അനുസരിച്ചാണ് നമുക്ക് ഒരു ബാലൻസ്ഡ് ട്രീ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണയും ഒരു നോഡിലേക്ക് വരുമ്പോൾ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഏകദേശം ഒരേ വലുപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് നിർവചിക്കാം നമുക്ക് ഒരു ബാലൻസ്ഡ് ട്രീ ഉണ്ടെങ്കിൽ അത് കാണാൻ പ്രയാസമില്ല പിന്നെ നമുക്ക് ഇതിൽ ഹൈറ്റ് ലോഗരിഥമിക് ആയിരിക്കും ഒരു ഹീപ്പ് പോലെയാണ് ഒരു ഹീപ്പ് ഒരു ബാലൻസ്ഡ് ട്രീയുടെ ഉദാഹരണമാണ് ഇപ്പോൾ സെർച്ച് ട്രീ ഹീപ്പിന്റെ ഉപവിഭാഗം ആകില്ല കാരണം നമുക്ക് ചില ഹോൾസ് ഉണ്ടാകും പക്ഷേ നമുക്ക് പൊതുവായി ഒരു ലോഗരിഥമിക് ഹൈറ്റ് ഉണ്ടാകും ഈ പ്രത്യേക കോഴ്സിൽ ഒരു ട്രീയെ എങ്ങനെ സന്തുലിതമാക്കാം എന്ന് നമ്മൾ വിശദീകരിക്കില്ല നമുക്ക് അത് പരിശോധിക്കാൻ കഴിയും എവിഎൽ ട്രീകൾ എന്ന വിഷയം പരിശോധിക്കാൻ കഴിയും ഇവ ബാലൻസ്ഡ് ട്രീ ആണ് ഇതിൽ ബാലൻസ് നിലനിർത്തുന്നതിനു റൊട്ടേറ്റിംഗ് സബ്ട്രീ ഉണ്ട് ഓരോ നോഡിലും ഇൻസേർട്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക എന്നിവ സാധ്യമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ലോഗരിഥമിക് ആണെന്ന് ഉറപ്പാക്കുകയും ചെയ്യും നമുക്ക് കോഡ് നേരിട്ട് നോക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുകയും നമ്മൾ ഇവിടെ എഴുതിയ എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് സ്വയം മനസിലാക്കുകയും ചെയ്യാം ഇവിടെ നമ്മൾ പ്രഭാഷണങ്ങളിൽ കാണിച്ച ക്ലാസ് ട്രീയ്ക്കായി ഒരു പൈത്തൺ കോഡ് ഉണ്ട് ശൂന്യമായ നോഡ് എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു ലീഫ് എങ്ങിനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു കമെന്റ് നമ്മൾ ചേർത്തു ഒരു ശൂന്യമായ നോഡ് അല്ലെങ്കിൽ ശൂന്യമായ രണ്ട് ചൈൽഡ് ഉള്ള ഒരു ലീഫ് നോഡ് സജ്ജീകരിക്കുന്ന കൺസ്ട്രക്റ്റർ ഇവിടെ ഉണ്ട് ഇപ്പോൾ isempty isleaf എന്നിവ ഉണ്ട് നിലവിലെ വാല്യൂ നൺ ആണോ അല്ലെങ്കിൽ ഇടത് വലത് ചൈൽഡ് യഥാക്രമം ശൂന്യമാണോ എന്ന് ഇവ പരിശോധിക്കുന്നു അതിനുശേഷം നമുക്ക് ഈ ഫംഗ്ഷൻ makempty ഉണ്ട് അത് ലീഫ് നെ ശൂന്യമായ നോഡ് ആക്കി മാറ്റുന്നു copyright ഇത് വലതു ചൈൽഡിന്റെ വാല്യൂസ് നിലവിലെ നോഡിലേക്ക് പകർത്തുന്നു തുടർന്ന് നമുക്ക് അടിസ്ഥാന റിക്കേഴ്സീവ് ഫങ്ഷൻസ് ഉണ്ട് നമ്മൾ ഫൈൻഡിൽ നിന്ന് ആരംഭിക്കുന്നു ഫൈൻഡ് എന്നാൽ ബൈനറി സെർച്ച്ച്ചിന് തുല്യമാണ് തുടർന്ന് ഇൻസേർട്ട് ചെയ്യുക അത് ഫൈൻഡ് പോലെയാണ് അത് കണ്ടെത്താത്തയിടത്ത് അത് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അവസാനമായിഒരു maxval ഉണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ ആണ് ഇപ്പോൾ ഒരു വാല്യൂ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക അതിനു ഡിലീറ്റ് നൌ ഉണ്ട് ഇത് ലീഫ് ആണെങ്കിൽ അത് നീക്കം ചെയ്യുക ഇടത് ചൈൽഡ് ശൂന്യമാണെങ്കിൽ അത് ശൂന്യമാക്കുക തുടർന്ന് നമ്മൾ വലത് ചൈൽഡിനെ മുകളിലേക്ക് പകർത്തുന്നു അല്ലാത്തപക്ഷം ഇടത് വശത്ത് നിന്ന് പരമാവധി വാല്യൂ ഡിലീറ്റ് ആക്കി ആ പരമാവധി വാല്യൂ കറന്റ് വാല്യൂ ആക്കി പ്രൊമോട്ട് ചെയ്യുന്നു അവസാനമായി ഈ ഇൻഓർഡർ ട്രാവേഴ്സൽ ഉണ്ട് അത് ട്രീ വാല്യൂസിൽ നിന്നും ഒരു സോർട്ടഡ് ലിസ്റ്റ് സൃഷ്ടിക്കുന്നു കൂടാതെ സ്ട്രിംഗ് ഫംഗ്ഷൻ str ഇൻഓർഡർ ട്രാവേഴ്സൽ കാണിക്കുന്നു നാം ഇവിടേയ്ക്ക് വന്നാൽ ഉദാഹരണത്തിന് ഈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്ത് ശൂന്യമായ ട്രീ സജ്ജമാക്കാൻ കഴിയും തുടർന്ന് ചില റാൻഡം വാല്യൂസ് ഇട്ടു അത് സൊർട്ടേഡ് ക്രമത്തിൽ ഇടണമെന്നില്ല ഒരു സമയം ഒരെണ്ണം ഇൻസേർട്ട് ചെയ്താൽ അത് ഒരു നീണ്ട പാത സൃഷ്ടിക്കും അതുകൊണ്ട് ഞാൻ ഇത് ക്രമരഹിതമായി ഇടാൻ ശ്രമിക്കുകയാണ് ഈ വാല്യൂസ് എല്ലാം നമ്മൾ ട്രീയിൽ ഇൻസേർട്ട് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഇതിന്റെ പ്രിന്റ് ടി ഒരു സോർട്ടഡ് ലിസ്റ്റ് എനിക്ക് തരുന്നു 1 2 3 4 എനിക്ക് ഇപ്പോൾ കൂടുതൽ വാല്യൂസ് ചേർക്കാൻ കഴിയും ക്രമരഹിതമായി 17 ഇൻസേർട്ട് ചെയ്താൽ 14 നും 18 നും മുമ്പായി എനിക്ക് 17 ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനും എനിക്ക് ഇത് തുടരാനും കഴിയും എനിക്ക് 4 5 പോലെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ പോലും കഴിയും കാരണം പൂർണ്ണസംഖ്യകൾ എന്ന് ഞാൻ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല ഇത് 4 നും 5 നും ഇടയിൽ ഇടുന്നു ഇപ്പോൾ എനിക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഞാൻ 3 ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 1 2 4 ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തുന്നു ഉദാഹരണത്തിന് ഞാൻ 14 ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി എനിക്ക് 14 ഇല്ല 7 നും 17 നും ഇടയിൽ ഈ വർദ്ധനവ് തീർച്ചയായും പ്രവർത്തിക്കുന്നു നമുക്ക് ഇത് ബാലൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ സന്തുലിതമാക്കുന്നില്ലെങ്കിൽ അപകടം എന്തെന്നാൽ സോർട്ടഡ് ശ്രേണിയിലേക്ക് നമ്മൾ വലിയ വാല്യൂസ് ഇടുമ്പോൾ വലിയ വാല്യൂസ് വലതു ചൈൽഡിലേക്കു ഉൾപ്പെടുത്തുന്നു ട്രീ യഥാർത്ഥത്തിൽ ഒരു നീണ്ട പാത പോലെ തോന്നുന്നു പിന്നീട് ഇത് ഒരു സൊർട്ടേഡ് ലിസ്റ്റ് പോലെയാകും ഓരോ ഇൻസെർട്ടിനും ഓർഡർ n സമയമെടുക്കും പക്ഷേ നമ്മൾ ചെയ്യുന്നതുപോലെ ബിൽറ്റ് ഇൻ റൊട്ടേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു AVL ട്രീ ഉപയോഗിച്ചിരിക്കാം തുടർന്ന് ട്രീ ഒരിക്കലും ലോഗ് n നേക്കാൾ ഉയരത്തിൽ വളരുകയില്ലെന്ന് ഉറപ്പാക്കാം എല്ലാ പ്രവർത്തനങ്ങളും ഇൻസേർട്ട് ഫൈൻഡ് ഡിലീറ്റ് എന്നിവ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വാല്യൂസിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ട ലോഗരിഥമിക് വ്യതിയാനത്തിൽ ആയിരിക്കും